പ്രഭാഷണം 06 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം VI എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ രാജരാം നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം കൈകാര്യം ചെയ്യുന്ന മൊഡ്യൂൾ 1 ലെക്ചർ നമ്പർ 6 ലാണ് നില്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രത്യേക ഡൈമെൻഷൻസിലുള്ള കാര്യത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഹ്രസ്വമായി നോക്കും നമ്മൾ ഒരു പ്രത്യേക ഡൈമെൻഷൻസ്ലുള്ള കാര്യത്തെക്കുറിച്ചും ടോളറൻസിനെ ക്കുറിച്ചും ഹ്രസ്വമായി നോക്കും അവസാന ക്ലാസിലെ ഡൈമെൻഷനിംഗ് സംബന്ധിച്ച പ്രത്യേക പ്രശ്നങ്ങളിൽ നമ്മൾ അതിനെ ഡൈമെൻഷൻ ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ പരിശോധിച്ചു ഉദാഹരണത്തിന് ഇത് ഒന്നിലധികം ഘട്ടങ്ങളുള്ള സിലിണ്ടറാണെങ്കിൽ കാഴ്ചയുടെ മറുവശത്ത് നമ്മൾ ഇതിനെ ഒരു പടികെട്ടു പോലെ കാണുന്നു വ്യാസം ആണെങ്കിൽ നമ്മൾ ഫൈ ചിഹ്നം ഉപയോഗിക്കുന്നു ഏറ്റവും ചെറിയത് അകത്ത് പ്രതിനിധീകരിക്കുകയും ഏറ്റവും വലുത് പുറത്ത് പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് അതിനാൽ അവയുടെ വ്യാസം അനുസരിച്ച് അവയെ ഡൈമെൻഷൻ ചെയ്യണം പ്രത്യേകിച്ചും അവ ദീർഘചതുരങ്ങളായി ദൃശ്യമാകുന്ന കാഴ്ചകളിൽ ഡൈമെൻഷൻ ചെയ്യണം അതിനാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒന്നിലധികം സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ ഈ വശത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവ ദീർഘചതുരങ്ങൾ പോലെ ദൃശ്യമാകും ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ രീതിയിൽ വ്യാസം കാണിക്കാൻ പോകുന്നു ഇതിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം നമ്മൾ സാധാരണയായി ഈ കാഴ്ചയിൽ കാണിക്കുന്നില്ല ടേപ്പർ ചെയ്ത പോലത്തെ സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ ഒരു ദീർഘചതുരം ഉണ്ടാകുന്നതിനുപകരം നമുക്ക് ടേപ്പർ ചെയ്ത സവിശേഷതയുണ്ട് എന്ന് വിചാരിക്കുക ഒരുപക്ഷേ വസ്തുവിന് അത്തരം സവിശേഷതകളുണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതിന്റെ ഉയരം കാണിക്കുന്നു കൂടാതെ അതിന്റെ നീളം 20 യൂണിറ്റുകൾ 60 യൂണിറ്റുകൾ എന്നിവ കാണിക്കുന്നു ഒരു പരന്ന ടേപ്പർ ചിഹ്നം ഉപയോഗിച്ച് പരന്ന അറ്റങ്ങൾക്കും അവയുടെ ടേപ്പർ ചരിവിനുമിടയിൽ ഒരു വശത്തെ ദൂരം നൽകിയാൽ നമ്മൾ ടേപ്പർ ചെയ്ത സവിശേഷതകൾക്കായി പോകുന്നു ഇവിടെ നമ്മൾ ഈ ഡൈമെൻഷൻസ് കാണിക്കുന്നു ഒപ്പം ടാപ്പേർഡ് ആകൃതിയുടെ ചിഹ്നമുള്ള ഒരു ടേപ്പർ കാണിക്കുന്നു ആ അനുപാതത്തിൽ വർദ്ധിക്കുന്ന ടേപ്പർ നമ്മൾ കാണിക്കുന്ന രീതിയാണിത് ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതും മറ്റൊരു രീതി എന്നത് ഒരു വശത്ത് ഉയരം നൽകുക എന്നതാണ് ഒരുപക്ഷേ ഈ നീളവും ടേപ്പറിന്റെ മുഖത്തിന്റെ ചരിവും മറുവശത്ത് കാണിക്കും അതിനാൽ ടേപ്പറിന്റെ നീളം 60 യൂണിറ്റാണ് ഇത് തിരശ്ചീനമായി 60 ഡിഗ്രി കോണാക്കുന്നു അതിനാൽ ഈ ടേപ്പർ ചിഹ്ന അനുപാതം നൽകിക്കൊണ്ട് ഇത് എങ്ങനെ മാറുമെന്ന് നമുക്ക് കാണിക്കാനും കഴിയും മറ്റൊരു വഴി ചരിവിലൂടെയും കോണിലൂടെയുമാണ് പ്രത്യേക ഡൈമെൻഷൻസ്ന്റെ രണ്ട് വഴികളാണിത് അതുപോലെ നമുക്ക് ത്രെഡ് സ്ക്രൂകൾ മുതലായവ ഉണ്ടെങ്കിൽ ഡൈമൻഷണൽ ഉദ്ദേശ്യത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായി നമ്മൾ ത്രെഡുകൾ നേരിട്ട് ഉപയോഗിക്കാറില്ല ഇവ ത്രെഡുകളാണെന്ന് സൂചിപ്പിക്കുന്ന പ്രത്യേക ഡൈമെൻഷൻസ് നമ്മൾ കാണിക്കുന്നു ഉദാഹരണത്തിന് സ്ക്രൂ ത്രെഡ് തരത്തിലുള്ള കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളായി തുറക്കാൻ കഴിയുന്ന ഒരു പേന നമ്മൾ എടുക്കുകയാണ് അതിനാൽ അവയിലൊന്നിൽ ബാഹ്യ ത്രെഡുകൾ ഉണ്ടായിരിക്കാം മറ്റൊന്നിൽ ആന്തരിക ത്രെഡുകൾ ഉണ്ടായിരിക്കും അതിനാൽ ബോൾട്ടുകൾ നട്ടുകൾ പേന സ്ക്രൂകൾ ക്യാപ്പുകൾ മുതലായവയ്ക്കായി നമ്മൾ ഈ ഡൈമെൻഷനുകൾ കാണിക്കുമ്പോൾ എല്ലായ്പ്പോഴും ബാഹ്യ ത്രെഡുകളും ആന്തരിക ത്രെഡുകളും ഉണ്ടായിരിക്കും അതിനാൽ ഈ ആന്തരിക ത്രെഡുകളും ബാഹ്യ ത്രെഡുകളും കാണിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഭാവി ക്ലാസുകളിൽ നമ്മൾ പഠിക്കും എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചതുരാകൃതിയിലുള്ള ഭാഗങ്ങൾ ടേപ്പർ ചെയ്തവ വളവുകൾ വരകൾ എന്നിവ കാണുമ്പോഴെല്ലാം ഇത് ത്രെഡുകളുമായി ഇടപെടേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല നമ്മൾ കാണിക്കുന്ന മെട്രിക് എം ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണയായി ഈ ത്രെഡുകൾ കാണിക്കുന്നത് അതിനായി മെട്രിക് ത്രെഡുകളെ എം എന്ന ചിഹ്നം ഉപയോഗിച്ച് കാണിക്കും ഇതിന് 12 മില്ലീമീറ്റർ വ്യാസമുണ്ടാകാം അതിനാൽ ഇത് ബാഹ്യ ത്രെഡുകളാണെങ്കിൽ നമ്മൾ അത് പുറം വശത്ത് നിന്ന് കാണിക്കുന്നു അതിനാൽ ആന്തരിക ത്രെഡ് ഉള്ള റെയ്നോൾഡ്സ് പേനയുടെ വെളുത്ത വർണ്ണ ഭാഗത്തിൽ നമ്മൾ എം 12 കാണിക്കും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആന്തരിക ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പോകുന്നു അതുപോലെ ഈ ത്രെഡുകൾ ബോൾട്ടുകൾ നട്ടുകൾ മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുമ്പോഴെല്ലാം നമ്മൾ സാധാരണയായി ഡ്രിൽ ചെയ്ത ദ്വാരത്തിന്റെ ആഴത്തിനൊപ്പം പോകുന്നു ഉദാഹരണത്തിന് ഈ വസ്തുവിനുള്ളിൽ ഒരു ത്രെഡ് ഉള്ള ഒരു ദ്വാരമുണ്ട് അതിനാൽ ആഴം എല്ലായ്പ്പോഴും ആവശ്യമാണ് ഉദാഹരണത്തിന് ഇവിടെ ഈ സാഹചര്യത്തിൽ 12 മില്ലീമീറ്റർ ആണ് അതിനാൽ ഒരു അറ്റത്ത് നിന്ന് ഇത് 22 മില്ലീമീറ്റർ കാണിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് ഈ ഭാഗം വരെ 22 മില്ലീമീറ്ററാണ് ഒബ്ജക്റ്റ് ഹോളിനുള്ളിലെ ത്രെഡ് ഈ ലെവൽ വരെ സൃഷ്ടിച്ചേക്കാം എന്നാൽ ത്രെഡിംഗ് ഈ നില വരെ മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ അത്തരം സാഹചര്യത്തിൽ ത്രെഡ് നീളം 18 മില്ലീമീറ്ററും കാണിക്കേണ്ടതുണ്ട് ഇത് 18 മില്ലീമീറ്ററാണ് ത്രെഡുകളും പ്രത്യേക സ്ക്രൂ സവിശേഷതകളും കാണിക്കുന്ന രീതി ഇതാണ് ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ പോലുള്ള വ്യത്യസ്ത കാഴ്ചകൾ നമ്മൾ എല്ലായ്പ്പോഴും കാണിക്കുന്നു കാരണം ഇത് ബാഹ്യ ത്രെഡ് പോലുള്ള ഒരു ത്രെഡ് ആണ് നമ്മൾ ഈ ഭാഗത്തു നിന്നോ ഒരുപക്ഷേ ഈ ഭാഗത്തു നിന്നോ നോക്കുകയാണെങ്കിൽ അത് ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു അതിൽ നമ്മൾ ത്രെഡ്ഡുകളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉള്ളിലുള്ള ഡൈമെൻഷൻസ്കളും ഉണ്ട് ഭാവി ക്ലാസുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ പഠിക്കും ഏത് തരത്തിലുള്ള ഡൈമെൻഷനുകളെയും പ്രതിനിധീകരിക്കുന്നതിന് സാധാരണയായി നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ആ ചിഹ്നം നോക്കുന്നതിലൂടെ ഡ്രോയിംഗിൽ വ്യാസം അല്ലെങ്കിൽ ഗോളീയ വ്യാസം അല്ലെങ്കിൽ ആരം എന്നിവ ഉണ്ടോ എന്ന് മനസിലാക്കാൻ കഴിയും നമ്മൾ ഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു അത് എസ് ഫൈ പോലെയാണെങ്കിൽ അത് ഗോളീയ വ്യാസം സൂചിപ്പിക്കുന്നു ആരം പ്രതിനിധീകരിക്കാൻ നമ്മൾ ആർ ഉം ഗോളാകൃതിയിലുള്ള ദൂരത്തിനു SR ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ഇവ ചതുര ഘടകങ്ങളാണെങ്കിൽ നമ്മൾ ചതുര ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ചിലപ്പോൾ നമ്മൾ സിലിണ്ടർ വസ്തുക്കളെ പ്രതിനിധീകരിക്കേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സിലിണ്ടറുകൾക്കായി CYL ചിഹ്നം ഉപയോഗിക്കുന്നു അതുപോലെ ഒരു പ്ലേറ്റിൽ ഇതു പോലെ ഒന്നിലധികം ദ്വാരങ്ങൾ ഉള്ളപ്പോഴെല്ലാം അത് പിച്ച് വ്യാസം ഉപയോഗിച്ചു പ്രതിനിധീകരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണയായി പിച്ച് സർക്കിൾ വ്യാസം പ്രതിനിധീകരിക്കുന്ന പിസിഡി യുമായി പോകുന്നു ദ്വാരങ്ങൾ തുല്യ അകലത്തിലാണെങ്കിൽ ഇക്വി സ്പെയ്സിനെ പ്രതിനിധീകരിക്കുന്ന ഇ പി ചിഹ്നവുമായി നമ്മൾ പോകുന്നു അതുപോലെ ഇത് കോണാകൃതിയിലുള്ള ടേപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു ഫ്ലാറ്റ് ടേപ്പർ മാത്രമാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ടേപ്പർ പോലുള്ള ചിഹ്നം ഉപയോഗിക്കുന്നു ഇത് കോണാകൃതി തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിക്കുന്നു സാധാരണയായി ത്രെഡുകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമായി നമ്മൾ സാധാരണയായി എം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ഇത് ഒരു മെട്രിക് ത്രെഡാണ് ഇത് ഈ ത്രെഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് കൌണ്ടർ ബോറുകൾ കൌണ്ടർ സിങ്കുകൾ പോലുള്ള വിവിധതരം ദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനായി ആളുകൾ പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ ഒരു മെഷീനിസ്റ്റിന് ഒരു ചിത്രത്തിന്റെ വിശദാംശങ്ങൾ കൈമാറാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിഹ്നങ്ങളും യൂണിറ്റുകളുടെ ഡൈമെൻഷൻസ്കളും ആണ് ഇപ്പോൾ ഡ്രോയിംഗിനായുള്ള ഈ ഡൈമെൻഷൻസ്കളെല്ലാം 12 മില്ലീമീറ്റർ എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ 12 മില്ലീമീറ്റർ ഉള്ള ഒരു വസ്തു തയ്യാറാക്കാൻ നമ്മൾ ഒരു മെഷീനിസ്റ്റിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ അത് 12 മില്ലീമീറ്റർ നീളം ആകാം അല്ലെങ്കിൽ 12 മില്ലീമീറ്റർ ഉള്ള ദ്വാരമാകാം നമ്മൾ മെഷീനുകളുമായി ഇടപെടുന്നതിനാൽ എല്ലായ്പ്പോഴും പ്ലസ് അല്ലെങ്കിൽ മൈനസ് വ്യതിയാനങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ മെഷീനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ടേണിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ച് 20 മില്ലീമീറ്റർ സിലിണ്ടർ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഒരു ലേത്ത് മെഷീൻ ഉപയോഗിക്കുമ്പോൾ മെക്കാനിക്കൽ വൈബ്രേഷനുകൾ താപനില വ്യതിയാനങ്ങൾ മുതലായവ കാരണം ഒരു ചെറിയ വ്യതിയാനം ഉണ്ടാകാം അതിനാൽ ഒരു വസ്തുവിന് അത് ഉയർന്നതോ താഴ്ന്നതോ ആയിരിക്കാനുള്ള സാധ്യത എല്ലായ്പ്പോഴും ഉണ്ട് പല ഘടകങ്ങളും ഇവയെ സ്വാധീനിക്കുന്നു അതിനാൽ ഡൈമെൻഷനുകൾ 12 മില്ലീമീറ്റർ അല്ലെങ്കിൽ 20 മില്ലീമീറ്റർ എന്ന് സൂചിപ്പിക്കുന്നത് നല്ല ആശയമല്ല 20 മുതൽ 20 5 മില്ലിമീറ്റർ വരെയുള്ള ശ്രേണി ആയി പരാമർശിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് 19 5 മില്ലീമീറ്റർ അല്ലെങ്കിൽ 20 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 05 മില്ലീമീറ്റർ ആയി പരാമർശിക്കാം അത്തരം ഡൈമെൻഷൻസ് പ്രതിനിധീകരിക്കുന്നതിനെ നമ്മൾ ടോളറൻസ് എന്ന് വിളിക്കുന്നു ഈ ടോളറൻസ്കളെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം ഒരു ഭാഗത്തിന്റെ വലുപ്പത്തിലും ജ്യാമിതിയിലും ഒരു പ്രത്യേക വ്യതിയാനത്തിനുള്ള അലവൻസാണ് ടോളറൻസുകളുടെ അടിസ്ഥാന നിർവചനം ഒരു വസ്തുവും കൃത്യമായ വലുപ്പത്തിൽ നിർമ്മിക്കാനും ആവർത്തിച്ചുള്ള രീതിയിൽ രൂപപ്പെടുത്താനും കഴിയില്ല ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഇത് ആവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ളിൽ എല്ലായ്പ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിനാൽ ഒരേ വലുപ്പവും ജ്യാമിതിയും ഉള്ള ഒരേ വസ്തു നിർമ്മിക്കുന്നത് കൃത്യമായി സാധ്യമല്ല അതിനാൽ ടോളറൻസുകൾ അനുവദനീയമായ വ്യതിയാനം സജ്ജമാക്കുന്നു അതിനാൽ എല്ലാ ഗുണനിലവാര പരിശോധനകൾക്കും ഈ ടോളറൻസ് പരിധികൾ കർശനമായി ചുമത്തുന്നു ഒരു വലിയ വ്യതിയാനമുണ്ടെങ്കിൽ അത് ഭാഗത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം ഉദാഹരണത്തിന് നമ്മൾ ഈ ലളിതമായ റെയ്നോൾഡ്സ് പേന എടുക്കുകയാണെങ്കിൽ അതിന് സ്ക്രൂവും മറ്റ് ഭാഗങ്ങളും ഉണ്ട് അതിനാൽ ഈ റെയ്നോൾഡ്സ് പേനയുടെ നീല നിറം വരുന്ന ഭാഗം നമ്മൾ സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ത്രെഡ് വളരെ ചെറുതാണെങ്കിൽ അത് ഉടൻ തന്നെ ആ പേനയുടെ പിടി നഷ്ടപ്പെടുകയും ഭാഗത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു ആ ത്രെഡ് വളരെ വലുതാണെങ്കിൽ ഒരുപക്ഷേ അത് ആ ഒബ്ജക്റ്റിൽ യോജിച്ചേക്കില്ല അതിനാൽ ഒരു വലിയ വ്യതിയാനം എല്ലായ്പ്പോഴും ഈ ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഉദാഹരണത്തിന് ഫിംഗർ റിങ്ങിന്റെ വലുപ്പം വളരെ വലുതാണെങ്കിൽ ആ മോതിരം ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്കാവില്ല അത് വളരെ ചെറുതാണെങ്കിൽ അത് നമ്മുടെ വിരലിലും യോജിക്കില്ല അതിനാൽ ഏതൊരു വസ്തുവിന്റെ ടോളറൻസിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഭാഗത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു എന്നിരുന്നാലും നമ്മൾ ഇത് കൃത്യമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ വരുത്താവൂ അത്തരം ഘടകങ്ങൾ നിർമ്മിക്കാൻ ഒരാൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ഇത് വളരെ ചെലവേറിയതായിരിക്കും അതിനാൽ ഈ ചെറിയ വ്യതിയാനത്തെയും കാര്യമായ വ്യതിയാനത്തെയും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം അതിനാൽ ഒരു വശത്ത് ഇത് സമയമെടുക്കും പണത്തിന്റെ കാര്യത്തിൽ ഇത് ചെലവേറിയതായിരിക്കും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര അളവുകൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ വില എത്രയാണ് കൂടാതെ പലതും പരിഗണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ സാധാരണയായി വ്യവസായങ്ങൾ ഈ ചെറിയ വ്യതിയാനവും വലിയ വ്യതിയാനവും ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ടോളറൻസുകൾ നമുക്ക് ഒരു അടിസ്ഥാന ഉദാഹരണം നോക്കാം മാച്ചിംഗ് പ്രക്രിയകളിൽ ഇവയെ നമ്മൾ അസ്സെംബ്ലിസ് എന്ന് വിളിക്കുന്നു ഇവ വ്യക്തിഗത ഘടകങ്ങളാണ് നമ്മൾ അവ ശരിയാക്കി അന്തിമ ഉൽപ്പന്നം പോലെയാക്കുന്നു കണ്ണട പോലുള്ള ഒരു ഉദാഹരണം നോക്കാം ഇത് അസംബ്ലിയുടെ ഒരു ഉദാഹരണമാണ് ഇത് സാധാരണ ഗ്ലാസ് ഉൾക്കൊള്ളുന്നു ഇതാണ് ഫ്രെയിം കൂടാതെ സന്ധികൾ ഉണ്ടാകും ഈ സന്ധികളിൽ സ്ക്രൂകൾ ഗ്ലാസ് സ്ക്രൂകൾ ഫ്രെയിം എന്നിവ ഉണ്ടായിരിക്കാം ഇവയെ ഈ കണ്ണടയുടെ ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നു ശരിയായ രീതിയിൽ നിങ്ങൾ അവയെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസംബ്ലി ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും ആ അസംബ്ലി കണ്ണടയാകുന്നു ഇപ്പോൾ ആ ഫ്രെയിമിലെ വ്യക്തിഗത കാര്യങ്ങൾ നോക്കാം ഇതാണ് ഫ്രെയിം അതിനകത്ത് ഒരു ഗ്ലാസ് ഇടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അത് യോജിക്കുകയും ഈ കണ്ണട ഉണ്ടാക്കുകയും ചെയ്യാം ഈ ഡൈമെൻഷൻലാണ് നമ്മൾ ഗ്ലാസ് യോജിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ ഡൈമെൻഷൻ നോക്കാം ഒന്നാമതായി ഒരേ ഡൈമെൻഷൻകൾ തയ്യാറാക്കുന്നത് എളുപ്പമല്ല ഇത് പരിഹരിക്കുന്നതിൽ നമ്മൾ ഒരു ചെറിയ വ്യതിയാനം വരുത്തിയാലും മെക്കാനിക്കൽ സമ്മർദ്ദങ്ങൾ കാരണം അത് വളഞ്ഞൊടിഞ്ഞേക്കാം അതിനാൽ ഈ ഗ്ലാസ് ഉള്ളിൽ ഘടിപ്പിക്കുന്നത് പോലുള്ള പ്രധാന പ്രവർത്തനം നമുക്ക് നേടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം ഇത് മെക്കാനിക്കൽ സമ്മർദ്ദങ്ങളുടെ ചെറിയ വർദ്ധനവ് താപനില വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷേ ഉപരിതല ഉരച്ചിലുകൾ എന്നിവയും മറ്റ് കാരണങ്ങൾ മൂലം ആയേക്കാം നമ്മൾ അതിനെ ചെറുതാക്കാൻ പോകുകയാണെങ്കിൽ അത് അതിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചേക്കാം എന്നാൽ അത് വലുതാണെങ്കിൽ അത് ആ വസ്തുവിൽ നിന്ന് പുറത്തുവരുന്നു ഇത് വലുതോ അല്ലെങ്കിൽ ഇത് ചെറുതോ ആണെങ്കിൽ അതിന് ശരിക്കും യോജിക്കാൻ കഴിയില്ല അതിനാൽ അവയുടെ ഡൈമെൻഷൻസ്കൾ ഒരു നിശ്ചിത മൂല്യ പരിധിയിൽ വരില്ലെങ്കിൽ ഭാഗങ്ങൾ പലപ്പോഴും യോജിക്കുന്നില്ല ഉദാഹരണത്തിന് ഈ ഡൈമെൻഷൻ 25 മില്ലീമീറ്ററാണെന്നും ഇത് 25 മില്ലീമീറ്ററാണെന്നും നമുക്ക് പരിഗണിക്കാം അത് ശരിയായ ഫിറ്റ് ആയിരിക്കും ഒരുപക്ഷേ നിങ്ങൾ അത് നിർമ്മിക്കുമ്പോൾ പരിധി 25 1 മില്ലീമീറ്റർ മുതൽ 24 9 വരെ ആയിരിക്കണം ഇത് 25 ആണെങ്കിൽ അത് ആ ഒബ്ജക്റ്റുമായി യോജിക്കുന്നു അത് 26 ആണെങ്കിൽ തീർച്ചയായും അത് ആ വസ്തുവിൽ ചേരുകയില്ല അത് ഫിറ്റ് ചെയ്യാൻ മറ്റ് മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ അവയുടെ ഡൈമെൻഷൻസ്കൾ ഒരു നിശ്ചിത മൂല്യ പരിധിയിൽ വരില്ലെങ്കിൽ ഭാഗങ്ങൾ പലപ്പോഴും യോജിക്കുന്നില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ ഗ്ലാസ് ഒരെണ്ണം തകർന്നാൽ അത് മാറ്റിസ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മാറ്റിസ്ഥാപിക്കാനുള്ള ഒരു ഭാഗം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യതിചലനത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുകയും യഥാർത്ഥ ഭാഗത്തിന്റെ തനിപ്പകർപ്പായിരിക്കണം അതിനാൽ വ്യവസായങ്ങൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിരവധി സംഖ്യകളിൽ നിർമ്മിക്കുമ്പോൾ ഈ ടോളറൻസിനെ കുറിച്ച് ഒരാൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവർത്തനം വളരെ ആവശ്യമാണ് കാരണം നിങ്ങൾ അത് തകർത്തു അത് മാറ്റിസ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് മാറ്റിസ്ഥാപിക്കാൻ നിങ്ങൾക്ക് കൃത്യമായ ഡൈമെൻഷനുകൾ ഉള്ള സമാനമായ ഒരു ഘടകം ആവശ്യമാണ് ഇല്ലെങ്കിൽ ടോളറൻസുകളുമായി ഒരാൾ കളിക്കേണ്ടതുണ്ട് ചെറിയ ടോളറൻസുകൾ സാധാരണയായി ചെലവ് വർദ്ധിപിക്കുമെന്നത് ഒരു സാധാരണ രീതിയാണ് ചെറിയ ടോളറൻസുകൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവിൽ എക്സ്പോണൻഷ്യൽ വർദ്ധനവിന് കാരണമാകുന്നു ചെറിയ ടോളറൻസുള്ള ഭാഗങ്ങൾക്ക് പലപ്പോഴും നിർമ്മാണത്തിന്റെ പ്രത്യേക രീതികൾ ആവശ്യമാണ് ഇത് ചെലവ് മാത്രമല്ല അത് തയ്യാറാക്കാൻ നിങ്ങൾ വളരെ ചെറിയ ടോളറൻസ് മൂല്യങ്ങൾക്കായി പോകുന്നുവെങ്കിൽ നമുക്ക് പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ് ചെറിയ ടോളറൻസുള്ള ഭാഗങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ പരിശോധനയും ഭാഗങ്ങൾ നിരസിക്കാനുള്ള സാധ്യത കൂടുതൽ ആണ് ഇത്തരത്തിലുള്ള ചെറിയ ടോളറൻസകൾക്ക് നമ്മൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തിയാലും ദിവസാവസാനം പരിശോധനയിലൂടെ ഇത് കടന്നുപോകേണ്ടതുണ്ട് ആവശ്യമായ ടോളറൻസുകളിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം ഉണ്ടായാലും ഭാഗം നിരസിക്കപെടാൻ ഉള്ള ഉയർന്ന സാധ്യതയുണ്ട് അതിനാൽ ചെറിയ ടോളറൻസുകൾക്ക് എല്ലായ്പ്പോഴും ഒരു വലിയ പരിശോധനയുടെ ആവശ്യം ഉണ്ട് മാത്രമല്ല ഈ ഭാഗങ്ങൾ നിരസിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് ചെറിയ ടോളറൻസ് പുലർത്തുന്നത് നല്ല രീതിയാണെങ്കിലും അത് വലിയ വെല്ലുവിളിയാണ് ഈ ടോളറൻസുകളെ നമ്മൾ വ്യത്യസ്ത രീതികളിൽ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് ഇത് വലുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം അല്ലെങ്കിൽ ജ്യാമിതിയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം വലുപ്പത്തിനായി നമുക്ക് അത് നോക്കാം ഡ്രോയിംഗിൽ നൽകിയിരിക്കുന്ന ദൈർഘ്യം വീതി ഉയരം അല്ലെങ്കിൽ വ്യാസം മുതലായവയിൽ അനുവദനീയമായ വ്യത്യാസം വ്യക്തമാക്കുന്നത് ഇത് പരിമിതപ്പെടുത്തുന്നു സൈസ് ടോളറൻസുകളെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ജ്യാമിതിയെ സംബന്ധിച്ചും നമ്മൾ ഈ ടോളറൻസുകളെക്കുറിച്ച് സംസാരിക്കുന്നു ജ്യാമിതീയ ടോളറൻസിംഗിനായി ടോളറൻസുകളുടെ സവിശേഷത നിർണ്ണയിക്കാൻ ഇത് അനുവദിക്കുന്നു ഭാഗത്തിന്റെ ജ്യാമിതി അതിന്റെ വലുപ്പത്തിൽ നിന്ന് വേർതിരിക്കുന്നു എനിക്ക് ഒരു ദീർഘചതുരം വരയ്ക്കാൻ ആഗ്രഹമുണ്ട് ഒരുപക്ഷേ ഒരു ചെറിയ വ്യതിയാനമുണ്ട് അത് ട്രപീസിയം തരത്തിലുള്ളതായി തോന്നാം ഈ വ്യതിയാനങ്ങൾ വളരെ ചെറുതാണ് അങ്ങനെ ഒരു ചതുരത്തിനുപകരം നമുക്ക് ടോളറൻസുള്ള ഒരു ട്രപസോയിഡ് ഉണ്ട് അതിനെയാണ് നമ്മൾ ജ്യാമിതീയ ടോളറൻസ് എന്ന് വിളിക്കുന്നത് രേഖകൾ ദൈർഘ്യം വ്യാസം മുതലായവയിൽ നമ്മൾ വലുപ്പ ടോളറൻസുകൾ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സിലിണ്ടർ പോലെ എന്തെങ്കിലും വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് ഓവൽ പോലെ കാണപ്പെടാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ജ്യാമിതീയ ടോളറൻസുകളാണ് ഒരു ഭാഗത്തിന്റെ വ്യത്യസ്ത ജ്യാമിതീയ സവിശേഷതകൾ നിയന്ത്രിക്കുന്നതിന് ജ്യാമിതീയ ഡൈമെൻഷൻസും ടോളറൻസും പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും വീതി ഉയരം വ്യാസം മുതലായവയുടെ വലുപ്പത്തിൽ നമ്മൾ ഇത് വ്യക്തമായി പരാമർശിക്കുന്നു ഒരുപക്ഷേ ഒരു പ്രത്യേക വൃത്തമോ ദീർഘവൃത്തമോ ഓവൽ തരത്തിലുള്ള കാര്യങ്ങൾക്കു നമ്മൾ പ്രത്യേകതരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ആ നില വരെ ഇത് അനുവദനീയമാണ് ഒരൊറ്റ ഡൈമെൻഷനുള്ള ടോളറൻസ് ഡൈമെൻഷനും ടോളറൻസും ഉപയോഗിച്ച് വ്യക്തമാക്കാം അത് എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് നമ്മൾ ഉടൻ തന്നെ നോക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ 25 മില്ലീമീറ്റർ പോലെയുള്ള എന്തെങ്കിലും പറയുകയാണെങ്കിൽ മുകളിലും താഴെയുമുള്ള പരിധികൾ തമ്മിലുള്ള മൊത്തം വ്യതിയാനമാണ് ടോളറൻസ് മുകൾ ഭാഗത്ത് ഏത് തലം വരെ എനിക്ക് ശരിക്കും പോകാം താഴത്തെ ഭാഗത്ത് ഏത് തലം വരെ പോകാൻ കഴിയും അത് 24 9 ആണോ അല്ലെങ്കിൽ 24 99 ആണോ അല്ലെങ്കിൽ ഇത് 25 01 പോലെയാണോ അതോ 25 1 ആണോ അത്തരത്തിലുള്ള ഈ മൊത്തം വ്യതിയാനത്തെ നേരിടാൻ എന്തെങ്കിലും പരിമിതപ്പെടുത്തണം ഇവിടെ നമുക്ക് ഒരു ഡ്രോയിംഗ് ഷീറ്റ് ഉണ്ട് അതിൽ നിരവധി ഘടകങ്ങൾ പരാമർശിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഒരു ചോക്ക് സ്ക്രൂകൾ മറ്റ് കാര്യങ്ങൾ എന്നിവ ഒരു ടേണിംഗ് ഓപ്പറേഷനായി പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 005 യൂണിറ്റുകളുള്ള ഫൈ 1 375 യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാസം പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് കാണാം അതുപോലെ നമുക്ക് 1 120 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 005 നോക്കാം അതുപോലെ ഈ വ്യാസം ഫൈ 2 75 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 നോക്കാം അതിനാൽ മാച്ചിംഗ് നടത്തുമ്പോൾ ഒരുപക്ഷേ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ഷീറ്റിലൂടെ ഉൽപ്പന്ന ഗുണനിലവാര പരിശോധനയിലേക്ക് പോകുമ്പോൾ പ്രധാനമായും ഗുണനിലവാര നിയന്ത്രണ വാതക പരിശോധന ഈ ടോളറൻസുകൾ നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും ആരെങ്കിലും 2 75 യൂണിറ്റ് ഉള്ള ബാഹ്യ വൃത്തത്തിന്റെ വ്യാസം അളക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം 2 77 യൂണിറ്റ് ആണെങ്കിൽ അത് നന്നായിരിക്കും ഇത് 2 73 യൂണിറ്റ് ആണെങ്കിൽ ഇത് തികച്ചും മികച്ചതാണ് കാരണം ഇത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 പ്രതിനിധീകരിക്കുന്നു വ്യാസം 2 78 ആണെങ്കിൽ അവർ ആ ഭാഗം നിരസിക്കും അതിനാൽ കൂടുതൽ ഉദ്ദേശ്യങ്ങൾക്ക് ഈ ടോളറൻസുകൾ എല്ലായ്പ്പോഴും സഹായകരമാണ് അതുപോലെ നമുക്ക് ഇത് നോക്കാം പോസിറ്റീവ് വശത്തും നെഗറ്റീവ് വശത്തും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ പോസിറ്റീവ് വശത്ത് ഇത് അഭികാമ്യമാണ് എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നെഗറ്റീവ് വശത്തു ഇത് വരുന്നത് നല്ലതല്ല അത് ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനെ കാട്ടിലും കുറവാണെങ്കിൽ അത് വളരെ ഇറുകിയിരിക്കും ഉദാഹരണത്തിന് ഇത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ അതിനകത്തു ഒരു സിലിണ്ടർ ഇടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ 25 മില്ലീമീറ്റർ ഉള്ള ഡൈമെൻഷൻ അളക്കുമ്പോൾ 25 01 ന് മുകളിലുള്ള എന്തും സ്വീകാര്യം ആയിരിക്കും എന്നാൽ ഞാൻ 25 1 ന് താഴെയാണെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അതിനാൽ ഈ സിലിണ്ടറിന് ആ ഒബ്ജക്റ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതിനാൽ ചിലപ്പോൾ ഈ താഴ്ന്ന ഡൈമെൻഷൻസുകൾ 0 പോലെ കർശനമായി അടിച്ചേൽപ്പിക്കേണ്ടിവരും അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളാണെങ്കിൽ മുകളിലുള്ള എന്തും തികച്ചും മികച്ചതാണ് ഈ വസ്തുവിൽ ശരിയാക്കേണ്ട സിലിണ്ടറിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതു ഞാൻ ആ 25 മില്ലീമീറ്ററിനൊപ്പം പോകുന്നുവെങ്കിൽ ഇവിടെ ഇത് മികച്ചതാണ് എന്നാൽ അതിനു മുകളിലുള്ള എന്തും അതായത് 25 02 അത് ആ ബോക്സിന് പുറത്തായിരിക്കും അതിനാൽ നമുക്ക് ഇത് ശരിക്കും യോജിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴത്തെ വശമായിരിക്കും അഭികാമ്യം മുകളിലെ വശം അഭികാമ്യമായിരിക്കില്ല അതിനാൽ നമ്മുടെ പ്ലസ് മൈനസ് വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കാം ഈ ടോളറൻസുകളെ വിശാലമായി രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലൊന്നാണ് പരിധി ടോളറൻസുകൾ ഇവിടെ നമ്മൾ 2 5 2 45 എന്നീ ഡൈമെൻഷൻസ് കാണിക്കുന്നു അതുപോലെ മറ്റൊന്ന് പരിധി ടോളറൻസുകളാണ് അതിൽ സൂചിപ്പിച്ച പരിധികൾ 1 4 മുതൽ 1 5 വരെ വ്യത്യാസപ്പെടാം ഈ വ്യാസം 1 5 മുതൽ 1 75 യൂണിറ്റ് വരെ വ്യത്യാസപ്പെടാം അതുപോലെ 28 0 മുതൽ 28 4 വരെയുള്ള കോണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം പരിമിതികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിധി ടോളറൻസുകൾ എന്ന് വിളിക്കുന്നു ഇത് പ്ലസ് മൈനസ് തരത്തിലുള്ള ടോളറൻസുകളാണെങ്കിൽ നമ്മൾ ഇത് സാധാരണയായി 2 5 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 00 മൈനസ് 005 എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്നു 1 45 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 05 00 പോലുള്ള ഷീറ്റുകൾ വരയ്ക്കുന്നതിലൂടെ നമ്മൾ ഇത് കാണുന്നത് ഒരു സാധാരണ രീതിയാണ് നമ്മൾ പ്ലസ് 0 15 മൈനസ് 0 10 പോലുള്ളവയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ പ്ലസ് മൈനസ് ടോളറൻസുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഡ്രായിങ് സംഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആറ് പ്രഭാഷണങ്ങളിൽ ഡ്രോയിംഗ് ഷീറ്റുകൾ ഡ്രോയിംഗ് ഉപകരണങ്ങൾ ലെറ്ററിംഗ് ലേയൌട്ടികൾ എന്നിവയെ കുറിച്ച് പൂർണമായി പേടിച്ചു അടുത്ത ക്ലാസ് മുതൽ രേഖകൾ കർവുകൾ ബൈസെക്ടർ രേഖകൾ എങ്ങനെ വരയ്ക്കാം ജ്യാമിതീയ കാര്യങ്ങൾ നിർമ്മിക്കാൻ ഈ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം പരാബോള വൃത്തം ഹൈപ്പർബോള സൈക്ലോയിഡുകൾ പോലുള്ള മറ്റ് വക്രങ്ങൾ എന്നിവ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ പഠിക്കും അതിനാൽ പ്രഭാഷണം 7 മുതൽ നമ്മൾ കോണിക് വിഭാഗങ്ങളും ജ്യാമിതീയ നിർമ്മാണങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നു